ഇപ്പോൾ രണ്ട് പോർട്ട് ഘടകങ്ങളെ പറ്റിയും റസിപ്രോസിറ്റി യെ പറ്റിയും ഉള്ള ഏഴാമത്തെ ആഴ്ചയിൽ തന്ന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം നിയന്ത്രിത ഉറവിടങ്ങൾ ഉൾപ്പെടുന്ന ഒരു രണ്ടു പോർട്ട് നെറ്റ്വർക്കി നെ കുറിച്ചാണ് ഇത് അർഥമാക്കുന്നത് ഈ നെറ്റ്വർക്ക് നിർബന്ധമായും റസിപ്രോക്കൽ ആകണമെന്നല്ല എന്നാൽ നിയന്ത്രിത ഉറവിടങ്ങളുടെ ചില ഘടകങ്ങൾക്ക് ഇത് റസിപ്രോക്കൽ ആകാം ഇത് റസിപ്രോക്കൽ പോലെ ആകുമ്പോൾ Rm ൻറെ മൂല്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് പോർട്ട് ഘടകങ്ങളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രത്യേകമായി പറയുകയാണെങ്കിൽ y21 നെയും y12 നെയും മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലെങ്കിൽ റസിപ്രോസിറ്റി പരിശോധിക്കുന്നതിനായിയുള്ള ഏതെങ്കിലും ഘടകങ്ങൾ അപ്പോൾ നമുക്ക് പറയാം ആദ്യം നമ്മൾ ഇവിടെ ഒരു വോൾട്ടേജ് ഉറവിടം V1 ഘടിപ്പിച്ച് പോർട്ട് 2 ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കറണ്ട് I2 കണ്ടുപിടിച്ച് അതിൽ നിന്നും y21 നിർണ്ണയിക്കുന്നു എന്ന് ഇപ്പോൾ ഇത് വളരെ ലളിതമായി മാറിയിട്ടുണ്ട് ഈ Vx എന്നത് V1 നു സമമാണ് അതിനാൽ ഇവിടെയുള്ള ഈ കറണ്ട് 1 മില്ലിസീമെൻസ് x V1 ആണ് ഇപ്പോൾ പോർട്ട് 2 ഷോർട് സർക്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിനാൽ 4 കിലോ Ω റെസിസ്റ്ററി ലൂടെ കറണ്ട് പ്രവഹിക്കുന്നില്ല പിന്നെ ഇതു വഴിയും ഇതിന് കുറുകെയുള്ള വോൾട്ടേജ് V1 ആണ് അതിനാൽ അവിടെ പ്രവഹിക്കുന്ന കറണ്ട് V1 4 കിലോ Ω 0 25 മില്ലിസീമെൻസ് x V1 ആണ് അതിനാൽ ഈ കറണ്ട് I2 സമം ഈ കറണ്ട് ന്യൂനം ആ കറണ്ട് ആണ് അത് 0 75 മില്ലിസീമെൻസ് x V1 നു സമമാണ് ഇവിടെയുള്ള ഈ സംഖ്യ y21 ആണ് ഇപ്പോൾ നമുക്ക് y12 കണ്ടുപിടിക്കുന്നതിനായി പോർട്ട് 1 ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് രണ്ടാമത്തെ പോർട്ടിലേക്ക് വോൾട്ടേജ് V2 കൊടുത്ത് കറണ്ട് I1 കണ്ടുപിടിക്കാം വീണ്ടും എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഈ 4 കിലോ Ω ന് കുറുകെ നമുക്ക് V2 ഉണ്ട് അത് അർത്ഥമാക്കുന്നത് ഇവിടെയുള്ള കറണ്ട് V2 4 കിലോ Ω അഥവാ 0 25 മില്ലിസീമെൻസ് x V2 ആണ് എന്നാണ് ഇതിന് കുറുകെ വീണ്ടും നമുക്ക് V2 ഉണ്ട് അത് നയിക്കുന്നത് V2 4 കിലോ Ω അഥവാ 0 25 മില്ലിസീമെൻസ് x V2 എന്ന കറണ്ടിലേക്കാണ് 25 മില്ലിസീമെൻസ് x V2 എന്ന Ix Rm നാൽ ഗുണിക്കപ്പെടുന്നു അതിനാൽ ഇവിടെയുള്ള വോൾട്ടേജ് 0 25മില്ലിസീമെൻസ് x Rm x V2 ആണ് അത് Rm x Ix ആണ് Ix ഇത്രത്തോളം ആണ് ഇപ്പോൾ രണ്ടാമത്തെ പോർട്ടിന് കുറുകെയുള്ള ഷോർട്ട് കാരണം തന്നെ ഈ വോൾട്ടേജ് 4 കിലോ Ω നു കുറുകെയും രൂപപ്പെടുന്നു അതിനാൽ ഇവിടെയുള്ള വോൾട്ടേജ് അത്രത്തോളം ആണ് അതിനാൽ ഇതുവഴി പ്രവഹിക്കുന്ന കറണ്ട് 0 25മില്ലിസീമെൻസ് x Rm x V2 4 കിലോ Ω ആണ് ആകെ കറണ്ട് I1 എന്നത് ഈ കറണ്ടിൻറെയും ആ കറണ്ടിൻറെയും ആകെ തുകയുടെ നെഗറ്റീവിന് സമമാണ് 25മില്ലിസീമെൻസ് x V2 0 25മില്ലിസീമെൻസ് x Rm x V2 4 കിലോ Ω എന്നതിനു സമമാണ് ഇത് y12 ആണ് അത് y21 ന് സമം ആയിരിക്കണം അതിനാൽ ഇത് മൊത്തത്തിൽ 0 75 മില്ലിസീമെൻസിന് സമം ആയിരിക്കണം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് Rm 4 കിലോ Ω 1 മില്ലിസീമെൻസ് 0 25 മില്ലിസീമെൻസ് 4 എന്നാണ് അതിനാൽ Rm എന്നത് 16 കിലോ Ω ആയിരിക്കണം മുൻപ് തന്നിട്ടുള്ള സർക്യൂട്ടിൻറെ h ഘടകങ്ങൾ കണ്ടു പിടിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതായത് Rm ൻറെ ശരിയായ മൂല്യം തിരഞ്ഞെടുത്തതിനു ശേഷം ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ഇതിനകം തന്നെ ഒന്ന് രണ്ട് y ഘടകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനാൽ അതുപയോഗിച്ച് മുന്നോട്ടുപോവുകയും എല്ലാ y ഘടകങ്ങളും കണ്ടുപിടിക്കുകയും പിന്നെ അവയെ h ഘടകങ്ങളാക്കി മാറ്റുകയും ചെയ്യാം അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ എല്ലാ h ഘടകങ്ങളും കണ്ടുപിടിക്കാം അപ്പോൾ ഞാൻ എല്ലാ h ഘടകങ്ങളും ആദ്യം മുതൽ തന്നെ കണ്ടു പിടിക്കാൻ പോവുകയാണ് ആദ്യത്തെ പോർട്ടിലേക്ക് ഒരു കറണ്ട് കൊടുത്ത് രണ്ടാമത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നമുക്ക് h11 ഉം h21 ഉം കണ്ടുപിടിക്കാം ഇപ്പോൾ ഞാൻ ഈ പോർട്ടിലേക്ക് ഒരു കറണ്ട് I1 കൊടുക്കുകയും രണ്ടാമത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയുമാണെങ്കിൽ Ix എന്ന ഈ കറണ്ട് പൂജ്യമായിരിക്കും അത് അർത്ഥമാക്കുന്നത് ഈ വോൾട്ടേജ് ഉറവിടം 0 വോൾട്സ് ആണെന്നാണ് അതിനാൽ ഇതും പൂജ്യത്തിൽ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് 0 വോൽട്സിൽ ആണ് ഇത് 0 വോൽട്സിൽ ആണ് അതിനാൽ ഇവിടെ വോൾട്ടേജ് V1 എന്തുതന്നെ ആണെങ്കിലും അവിടെ V1 4 കിലോ Ω എന്ന കറണ്ട് പ്രവഹിക്കുന്നു പിന്നെ അവിടെ V1 4 കിലോ Ω എന്ന മറ്റൊരു കറണ്ട് പ്രവഹിക്കുന്നു അവയുടെ തുക I1 ന് തുല്യമായിരിക്കണം അതിനാൽ I1 എന്നത് V1 4 കിലോ Ω V1 4 കിലോ Ω ആയിരിക്കണം അതിനാൽ രണ്ടാമത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള V1 I1 എന്നിവയുടെ അനുപാതം ആയ h11 2 കിലോ Ω ആയി മാറുന്നു ഇപ്പോൾ I2 നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് I2 നമ്മൾ ഇതിനകം തന്നെ V1 എന്നത് I1 x 2 കിലോ Ω ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനാൽ ഇവിടെയുള്ള ഈ കറണ്ട് ഉറവിടം 1 മില്ലിസീമെൻസ് x 2 കിലോ Ω x I1 അഥവാ 2 x I1 ആണ് അതായത് അവിടെ നമുക്ക് 2 I1 ഉണ്ട് പിന്നെ അവിടെ V1 4 കിലോ Ω അഥവാ I1 2 ഉണ്ട് അതിനാൽ ആകെ കറണ്ട് ആയ I2 ലഭിക്കുന്നത് I1 2 ചെയ്യുമ്പോഴാണ് അത് 1 h21 എന്നത് V2 ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴുള്ള I2 I1 ആണ് അത് 1 ഇപ്പോൾ രണ്ട് ഘടകങ്ങൾ കൂടി ലഭിക്കുന്നതിനായി ആദ്യത്തെ പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ആക്കി വെച്ച് രണ്ടാമത്തെ പോർട്ടിൽ ഒരു വോൾട്ടേജ് കൊടുക്കണം അപ്പോൾ ഇവിടെ V2 കൊടുക്കുകയാണെങ്കിൽ ഈ Ix എന്നത് V2 4 കിലോ Ω ആയിരിക്കും പിന്നെ ഇത് Rm Ix ആയിരിക്കും Rm എന്നത് 16 കിലോ Ω ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനാൽ Rm x Ix എന്നത് 4 x V2 ആയിരിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് V1 ആണ് നമുക്കറിയാം ഇതുവഴി പ്രവഹിക്കുന്ന കറണ്ട് 4 കിലോ Ω ആണ് എന്ന് പിന്നെ അതുവഴി പ്രവഹിക്കുന്ന കറണ്ട് V1 ഈ ബിന്ദുവിലെ വോൾട്ടേജ് അതായത് 4 x V2 4 കിലോ Ω ആണ് അപ്പോൾ 4 കിലോ Ω V1 4V2 4 കിലോ Ω ആണ് അതിനാൽ ഇത് അപ്രത്യക്ഷമാവുകയും അവസാനം 2 V1 3 V2 എന്നതുമാത്രം ലഭിക്കുകയും ചെയ്യും അപ്പോൾ h12 അതായത് I1 പൂജ്യം ആകുമ്പോൾ ഉള്ള V1 V2 എന്നത് 32 അഥവാ 1 5 ആയിരിക്കും ഇപ്പോൾ ഇത് ഒരു ഉപകാരപ്രദമായ യുക്തി പരിശോധനയാണ് കാരണം നമ്മൾ Rm തിരഞ്ഞെടുത്തത് നെറ്റ് വർക്ക് റസിപ്രോക്കൽ ആകുന്നതിനു വേണ്ടിയാണ് നമുക്ക് കാണാൻ കഴിയും അതായത് h21 എന്നത് 1 5 ആണ് പിന്നെ h12 എന്നത് 1 നമ്മൾ ഇത് സ്വതന്ത്രമായാണ് കണ്ടുപിടിച്ചത് പക്ഷേ നമുക്കറിയാം ഇത് റസിപ്രോക്കൽ ആണ് എന്നും h12 എന്നത് h21 ആയി വരണം എന്നും അവസാനമായി നമുക്ക് I2 കണ്ടുപിടിക്കണം നമുക്ക് ഇതിനകം തന്നെ I2 ൻറെ രണ്ട് ഘടകങ്ങൾ അറിയാം അതായത് ഇവിടെ പ്രവഹിക്കുന്ന കറണ്ടും അവിടെ പ്രവഹിക്കുന്ന കറണ്ടും അവിടെ പ്രവഹിക്കുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം ഇത് 1 മില്ലിസീമെൻസ് x Vx ആണ് അത് 1 മില്ലിസീമെൻസ് x V1 ആണ് കാരണം Vx ഉം V1 ഉം ഒന്ന് തന്നെയാണ് അതിനാൽ ഇവിടെയുള്ള ഈ കറണ്ട് 1 മില്ലിസീമെൻസ് x Vx എന്നത് 1 5 x V2 ആണ് 5 മില്ലിസീമെൻസ് x V2 ന് തുല്യമാണ് അതിനാൽ I2 എന്നത് ഈ മൂന്നു ഘടകങ്ങളുടെ തുകയാണ് ഇത് 4 കിലോ Ω V2 1 5 V2 4 കിലോ Ω ആണ് ഇത് V2 4 കിലോ Ω ആണ് പിന്നെ ഇത് 1 5 മില്ലിസീമെൻസ് x V2 ആണ് അപ്പോൾ ഇത് V2 x 2 5 4 കിലോ Ω 1 4 കിലോ Ω 1 5 മില്ലിസീമെൻസ് ആയിരിക്കും അത് V2 x 0 625 മില്ലിസീമെൻസ് 0 25 മില്ലിസീമെൻസ് 1 5 മില്ലിസീമെൻസ് ആയിരിക്കും 625മില്ലിസീമെൻസ് x V2 എന്നാണ് വരുന്നത് h22 അതായത് പോർട്ട് വൺ ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ ഉള്ള I2 V2 0 625 മില്ലിസീമെൻസ് ആണ് അതിനാൽ h11 എന്നത് 2 കിലോ Ω ആണ് 625 മില്ലിസീമെൻസ് ആണ് h21 എന്നത് 1 ഇപ്പോൾ ഇത് നിയന്ത്രിത ഉറവിടങ്ങൾ ഉള്ള മറ്റൊരു നെറ്റ്വർക്കാണ് നെറ്റ്വർക്ക് റസിപ്രോക്കൽ ആകുന്നതിനായുള്ള Gm എന്ന നിയന്ത്രണ ഉറവിടത്തിൻറെ മൂല്യം ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏതു ഘടകങ്ങളുടെ ഗണം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഞാൻ z ഘടകങ്ങൾ തിരഞ്ഞെടുക്കട്ടെ ഞാൻ z12 ഉം z21 ഉം കണ്ടുപിടിച്ച് അവയെ തുല്യം ആക്കണം അതിനാൽ ആദ്യം ഞാൻ പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ആക്കിയതിനു ശേഷം I2 കൊടുത്ത് V2 അളക്കണം ഇപ്പോൾ പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുമ്പോൾ ഈ ശാഖയിൽ ഉള്ള കറണ്ട് പൂജ്യം ആണ് അതിനാൽ Vx പൂജ്യമാണ് അതിനാൽ ഇത് അപ്രത്യക്ഷമാകും ഈ കറണ്ട് എല്ലാം ഈ ലൂപ്പിലേക്ക് പ്രവഹിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ കാണുന്നു കാരണം അതിലേക്ക് ഒന്നും പോകാൻ കഴിയില്ല അതിനാൽ ഈ Vy മറ്റൊന്നുമല്ല I 1×500Ω ആണ് ഈ വോൾട്ടേജ് 5×Vy ആണ് അത് 5×500Ω ×Vy അല്ലെങ്കിൽ 2 5 കിലോΩ ×Vy ആണ് പിന്നെ ഈ V2 ഇതിന് കുറുകെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അത് അത് ഈ വോൾട്ടേജ് ഡ്രോപ്പാണ് അത് 0 അതിന് കുറുകെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അതായത് അര കിലോΩ × I1 എന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അതിനാൽ V 2 എന്നത് 2 5 കിലോΩ × I1 അര കിലോΩ × I1 ആണ് അത് 3 കിലോΩ ×I1 ആണ് പോർട്ട് 2 ഓപ്പൺ ആയിരിക്കുമ്പോൾ ഉള്ള V2I1 ആണ് z21 അത് 3 കിലോΩ ആണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കറണ്ട് പ്രയോഗിച്ച് പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് z12 കണക്കാക്കുന്നു നിങ്ങൾ പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ശാഖയിലൂടെയുള്ള കറണ്ട് പൂജ്യം ആണ് അതായത് ഈ രണ്ട് സമാന്തര ശാഖകളുടെ സംയോജനമാണ് 0 അവയിൽ നിന്ന് വരുന്നത് എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ I2 ഈ റെസിസ്റ്ററിലേക്ക് പ്രവഹിക്കുകയും നിങ്ങൾക്ക് 0 5 കിലോΩ × I2 ഇതിനു കുറുകെ ലഭിക്കുകയും ചെയ്യുന്നു ധ്രുവത കാരണം ഈ Vx അടിസ്ഥാനപരമായി I2 × 1 കിലോΩ ആയിരിക്കും അതിനാൽ ഈ Gm×Vx എന്നുള്ളത് G m × 1 കിലോΩ × I2 ആണ് അതിനാൽ ഈ ദിശയിലാണു വോൾട്ടേജ് ഡ്രോപ്പ് കാരണം Gm × 1 കിലോΩ × I2 × 500Ω അല്ലെങ്കിൽ അര കിലോΩ എന്ന ഈ കറണ്ട് ഒഴുകുന്നത് അതിലൂടെ ആണ് ഇപ്പോൾ ഈ വോൾട്ടേജ് ഡ്രോപ്പിന്റെയും ആ വോൾട്ടേജ് ഡ്രോപ്പിന്റെയും ആകെത്തുകയാണ് ഈ V 1 ഓർക്കുക V1 എന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അത് ഇതിന്റെ നെഗറ്റീവ് ആണ് ഇത് Gm × 1 കിലോΩ × അര കിലോΩ × I2 അര കിലോΩ × I2 ആണ് അതിനാൽ ഇത് z12 ആണ് അത് z21 ന് തുല്യമായിരിക്കണം അതായത് 3 കിലോΩ അതിനാൽ Gm എന്നത് 2 5 കിലോΩ അര കിലോΩ × 1 കിലോΩ ആണ് ഇത് നിങ്ങൾക്ക് 5 മില്ലിസീമെൻസ് നൽകുന്നു അതിനാൽ ഈ നെറ്റ്വർക്ക് റസിപ്രോക്കൽ ആയിരിക്കുന്നതിനു Gm 5 മില്ലിസീമെൻ ആയിരിക്കണം അടുത്ത ചോദ്യം ഈ നെറ്റ്വർക്കിന്റെ G ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഒന്നുകിൽ y11 y22 എന്നിവയുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയ ശേഷം നമുക്ക് y ഘടകങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആദ്യം മുതൽ G ഘടകങ്ങൾ വിലയിരുത്താം അതിനാൽ ആദ്യം നമ്മൾ V1 പ്രയോഗിക്കുകയും പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ടിൽ ആക്കുകയും ചെയ്യുന്നു ഇത് നമുക്ക് g11 ഉം g21 ഉം നൽകുന്നു നിങ്ങൾ V1 ഇതുപോലെ പ്രയോഗിച്ചാൽ ഓപ്പൺ സർക്യൂട്ടുകൾ കാരണം ഈ കറണ്ട് പൂജ്യം ആയിരിക്കണമെന്ന് നമുക്കറിയാം അതിനാൽ Vx പൂജ്യം ആണ് അതിനാൽ ഈ കറണ്ട് ഉറവിടം ഇല്ലാതാകുകയും ഈ 500Ω ന്റെയും ആ 500Ω ന്റെയും സീരീസ് സംയുക്തത്തിൽ ഉടനീളം ഈ V1 ദൃശ്യമാകുകയും ചെയ്യുന്നു കാരണം അവിടെ വൈദ്യുതധാരകളൊന്നും ഒഴുകുന്നില്ല അതിനാൽ ഈ രണ്ട് പ്രവാഹങ്ങളുടെ ഒരു സീരീസ് സംയോജനമായ കറണ്ട് V1 1 കിലോΩ ഈ വഴിക്ക് ഒഴുകുന്നു Vy എന്നത് V1 ന്റെ പകുതിയും ഇവിടെ ഈ വോൾട്ടേജ് 5×Vy ഉം ആണ് അതിനാൽ ഇത് 5 x V1 ന്റെ പകുതി അല്ലെങ്കിൽ 2 5 × V1 ആണ് അതിനാൽ ആദ്യമേ തന്നെ ഇവിടെയുള്ള I1 കറണ്ട് V1 1 കിലോΩ ആണ് അതിനാൽ g11 അതായത് പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ ഉള്ള I1 V1 1 മില്ലിസീമെൻസ് ആണ് g21 അതായത് പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ ഉള്ള V2 V1 ആണ് ഇവിടെയുള്ള ഈ വോൾട്ടേജ് 2 5 V1 ആ വോൾട്ടേജ് 0 ആ വോൾട്ടേജ് V1 ന്റെ പകുതിയാണ് അങ്ങനെ അവ ഒരുമിച്ച് 3×V1 V1 3 ആണ് അതിനാൽ g11 എന്നത് 1 മില്ലിസീമെൻസും g21 എന്നത് 3 ഉം ആണ് ഇപ്പോൾ ഒരു കറണ്ട് ഉറവിടം ബന്ധിപ്പിച്ച് ആദ്യത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ട് V2 ഉം I1 ഉം കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റ് രണ്ട് ഘടകങ്ങൾ വിലയിരുത്താം നമുക്കറിയാം ഈ Vx സമം I2 x 1 കിലോΩ ആണ് കാരണം I2 ഇതിലൂടെ പ്രവഹിക്കുന്നു ഈ G m V x ഈ ദിശയിലായിരിക്കും അതായത് Gm × 1 കിലോΩ × I2 അതിനാൽ തീർച്ചയായും ഇവിടെയുള്ള കറണ്ട് I2 ആണ് ഇപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് ഇതിനെ Vy എന്ന് വിളിക്കാം ഇത് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു നമുക്ക് നിരവധി ബന്ധങ്ങൾ എഴുതാം ഇവിടെ ഈ കറണ്ട് Vy 500Ω ആണ് അതുപോലെ ആദ്യത്തെ പോർട്ടിലെ ഷോർട്ട് സർക്യൂട്ട് കാരണം ഇവിടെയുള്ള വോൾട്ടേജും Vy ആണ് അതിനാൽ ഇവിടെ ഉള്ള കറണ്ട് Vy 500Ω ആണ് ഇവിടെ KCL പ്രയോഗിക്കുമ്പോൾ നമുക്ക് I2 എന്നത് Vy 500Ω Vy 500Ω ഈ G m വഴിയുള്ള കറന്റ് അതായത് Gm × 1 കിലോΩ × I2 ആണ് അതിനാൽ ഇതെല്ലാംകൂടി നിങ്ങൾക്ക് 4 മില്ലിസീമെൻസ് Gm × 1 കിലോΩ നൽകുന്നു നമുക്ക് അറിയാം Gm 5 മില്ലിസീമെൻസ് ആണെന്ന് അതിനാൽ ഇത് 5 മില്ലിസീമെൻസ് × 1 കിലോΩ × I2 ആണ് അതിനാൽ ഇപ്പോൾ നമ്മൾ അതിനെ മറുവശത്തേക്ക് കൊണ്ടുപോകുന്നു Vy എന്നത് I2 × 4 മില്ലിസീമെൻസ് അഥവാ 1 കിലോΩ × I2 ആണെന്ന് നമുക്ക് കണ്ടെത്താം അതിനാൽ ഇപ്പോൾ I1 എന്താണെന്ന് നോക്കാം I1 എന്നത് മറ്റൊന്നുമല്ല ഏത് കറണ്ട് ആണോ ഇവിടെ പ്രവഹിക്കുന്നത് അതിന്റെ നെഗറ്റീവ് ആണെന്നും ആ കറണ്ട് I 2 Vy 500Ω ആണെന്നും കാണാൻ കഴിയും I 1 എന്നത് Vy 500Ω I 2 അഥവാ 1 കിലോΩ × I2 500Ω I2 or 3 × I2 ആണ് അതിനാൽ g12 അതായത് പോർട്ട് 1 ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള I1 I2 എന്നത് 3 ആണ് g21 എന്നത് 3 ആണെന്നും g12 എന്നത് 3 ആണെന്നും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് റസിപ്രോക്കൽ ആണെന്ന് നമുക്കറിയാം അതിനാൽ അത് സാനിറ്റി പരിശോധനയെ തൃപ്തിപ്പെടുത്തുന്നു ഇത് റസിപ്രോക്കൽ ആണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മൾ അത് സ്വതന്ത്രമായി നിർണ്ണയിക്കേണ്ടതില്ല മറിച്ച് ഒരു വ്യായാമം എന്ന നിലയിൽ ഞാൻ അത് ചെയ്തു ഇപ്പോൾ അത് മറ്റൊരു വിധത്തിൽ റസിപ്രോക്കൽ ആണെന്ന് സ്ഥിരീകരിച്ചു ഇപ്പോൾ g22 കണ്ടെത്തുന്നതിന് V2 കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ V2 മറ്റൊന്നുമല്ല അതിലുടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അതിലെ വോൾട്ടേജ് ഇത് ആണ് അതിനാൽ V2 എന്നത് 5 Vy 1 കിലോΩ × I2 Vy ലെ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും അത് 5 × 1 കിലോΩ × I2 1 കിലോΩ × I2 1 കിലോΩ × I2 ആണ് അതിനാൽ മുഴുവൻ കാര്യങ്ങളും അടിസ്ഥാനപരമായി ഇങ്ങനെയാകുന്നു അതായത് 5 കിലോΩ 1 കിലോΩ 1 കിലോΩ അഥവാ 5 കിലോΩ × I2 അതിനാൽ g22 എന്നത് പോർട്ട് 1 ഷോർട്ട് ചെയ്യുമ്പോഴുള്ള V2 I2 ആണ് അത് 5 കിലോΩ ആയിരിക്കും നിങ്ങൾക്ക് നൽകിയ അടുത്ത പ്രശ്നത്തിൽ a തന്നിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് N എന്നത് ശുദ്ധമായ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആണെന്നും അവയുടെ പുറത്തും ചില റെസിസ്റ്ററുകൾ ഉണ്ട് എന്നുമാണ് നിങ്ങൾ 2 പോർട്ടായി പ്രതിനിധീകരിക്കുകയാണെങ്കിൽ റെസിസ്റ്ററുകളുള്ള ഭാഗം തീർച്ചയായും റസിപ്രോക്കൽ ആയിരിക്കും തുടർന്ന് b യിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ ആദ്യം തിരിച്ചറിയേണ്ടത് നെറ്റ്വർക്ക് a ഉം b ഉം ആണ് നിങ്ങൾ സ്വതന്ത്ര ഉറവിടങ്ങളെ പൂജ്യം അല്ലെങ്കിൽ ഒരുപോലെ സജ്ജമാക്കുമ്പോൾ കാരണം നിങ്ങൾ സ്വതന്ത്ര ഉറവിടങ്ങളെ പൂജ്യം ആയി സജ്ജമാക്കിയാൽ ഇത് ഒരു ഷോർട്ട് സർക്യൂട്ടായി മാറുന്നു അതിനാൽ 1 നും 1 നും ഇടയിൽ നിങ്ങൾക്ക് 1 കിലോΩ ഉണ്ട് ഇവിടെയും 1 നും 1 നും ഇടയിൽ നിങ്ങൾക്ക് 1 കിലോΩ ഉണ്ട് അത് 0 5 ഉം ആയി വിഭജിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ 1 കിലോΩ ഉണ്ട് നിങ്ങൾ ഇത് മറുവശത്ത് ഓപ്പൺ സർക്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് 1 കിലോΩ ഉണ്ട് അതിനാൽ ഇത് ചെയ്യുന്നതിന് നിരവധി നിരവധി മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിനായുള്ള 2 പോർട്ട് ഘടകങ്ങൾ ഈ നെറ്റ്വർക്ക് N ലും ഈ നെറ്റ്വർക്ക് N ലും എഴുതി പരിഹരിക്കാനാകും റെസിസ്റ്റീവ് നെറ്റ്വർക്കുകളുടെ റസിപ്രോസിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യവസ്ഥ ഈ N റസിപ്രോക്കൽ ആണ് എന്നതാണ് പക്ഷേ അതിനുള്ള എളുപ്പവഴി ഒരു പുതിയ 2 പോർട്ട് നിർവചിക്കുക എന്നതാണ് അവിടെ ഈ റസിപ്രോസിറ്റി പ്രയോഗിക്കാൻ കഴിയും അതിനാൽ ആദ്യം തന്നെ ഇവിടെ ഈ വോൾട്ടേജ് 2 വോൾട്ട് ആണെന്ന് നമുക്കറിയാം ഇത് 2 മില്ലി ആംപ് × 1 കിലോΩ ആണ് അതിനാൽ ഇപ്പോൾ ഇത് എന്റെ 2 പോർട്ട് ആണെന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ ഇത് എന്റെ 1 1 ഉം 2 2ഉം ആണെന്ന് പറയാം അടിസ്ഥാനപരമായി ഈ വോൾട്ടേജും ആ വോൾട്ടേജുമായുള്ള അനുപാതം 2 വോൾട്സ് 10 വോൾട്സ് അഥവാ 15 എന്നത് g21 ആണ് ഇപ്പോൾ ഞാൻ ഈ പുതിയ 2 പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്തും ഞാൻ നിർവചിച്ചത് അവ പൂർണ്ണമായും റെസിസ്റ്റീവ് ആണ് എന്നാണ് അതിനാൽ അവ റസിപ്രോക്കലും ആണ് അതിനാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഞാൻ ഇത് നീക്കം ചെയ്ത് ഇത് ഷോർട്ട് സർക്യൂട്ടിലേക്ക് മാറ്റി സ്ഥാപിച്ച് ഞാൻ ഇവിടെ ഒരു കറണ്ട് ഉറവിടം പ്രയോഗിക്കുകയും ഇതിനെ I2 എന്ന് വിളിക്കുകയും ഇതിനെ I1 എന്ന് വിളിക്കുകയും ചെയ്യുന്നു അതിനാൽ എന്റെ g12 എന്നത് പുതിയ 2 പോർട്ടിന്റെ പോർട്ട് 1 ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴുള്ള I1 I2 ആയിരിക്കും ഇത് g21 അല്ലെങ്കിൽ ⅕ ആയിരിക്കും അതിനാൽ ഇപ്പോൾ എനിക്കുള്ള സാഹചര്യം അതാണ് ഈ 1 കിലോΩ നു കുറുകെ ഈ കറണ്ട് ഉറവിടം ഉണ്ട് അത് 5 മില്ലി ആംപ്സ് ആണ് എന്റെ I2 എന്ന കറണ്ട് 5 മില്ലി ആംപ്സ് ആണ് ഇതിൽ ഞാൻ ഒന്നും ചെയ്യേണ്ടതില്ല ഇത് 1 നും 1 നും കുറുകെ ഉള്ള 1 കിലോΩ മാത്രമാണ് അതിനാൽ എനിക്ക് 1 നും 1′ നും കുറുകെ 1 കിലോΩ ഉണ്ട് അതിനാൽ ഇത് എന്റെ I1 ആയിരിക്കും ഞാൻ ഈ ചിത്രത്തിലെ അളവുകൾ ആ ചിത്രവുമായി പൊരുത്തപ്പെടുത്തുകയാണ് അതിനാൽ ഈ ദിശയിലുള്ള ഈ I1 എന്നത് g12 × I2 ആണെന്ന് എനിക്കറിയാം അതായത് ⅕ × 5 മില്ലി ആംപ്സ് അഥവാ 1 മില്ലി ആംപ്സ് ആണ് അതിനാൽ അടിസ്ഥാനപരമായി 1 മില്ലി ആംപ് ആ ദിശയിലേക്ക് ഒഴുകുന്നു എന്നാണ് ഇതിനർത്ഥം അതിനാൽ Vx വളരെ ലളിതമാണ് ഇത് 1 മില്ലി ആംപ് × അര കിലോΩ ആണ് അത് അര വോൾട്ട് ആണ് അതിനാൽ Vx പകുതി വോൾട്ടിന് തുല്യമാണ് അതാണ് ഉത്തരം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്ത് ചില ഉറവിടങ്ങളും റെസിസ്റ്ററുകളും ഉള്ള 2 പോർട്ടിന്റെ ചില സംയോജനം നൽകിയിരിക്കുന്നു കൂടാതെ 1 നും 1′ നും ഇടയിലുള്ള നോർട്ടൺ തത്തുല്യം കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇപ്പോൾ സർക്യൂട്ട് ഘടകങ്ങളുള്ള സർക്യൂട്ടുകളുടെ നോർട്ടൺ അല്ലെങ്കിൽ തെവെനിൻ തത്തുല്യം കണ്ടെത്തിയതിൽ നിന്ന് ഇത് അൽപ്പം വ്യത്യസ്തമായി കാണപ്പെടാം ഇപ്പോൾ നിങ്ങൾക്ക് 2 പോർട്ട് ഉണ്ട് എന്നാൽ നിർവചനങ്ങൾ കൃത്യമായി സമാനമാണ് അതിനാൽ പ്രസക്തമായ ടെർമിനലുകൾക്കിടയിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കറണ്ട് കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് നോർട്ടൺ കറണ്ട് കണ്ടെത്താം അതിനാൽ നിങ്ങൾ അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ആ ശാഖയിലെ കറണ്ട് കണ്ടെത്തുകയാണെങ്കിൽ അത് നോർട്ടൺ കറണ്ട് ആയിരിക്കും അതിനാൽ ഇപ്പോൾ ഈ IN എന്നത് അവിടെ വരുന്നതെന്തും അവിടെ നിന്ന് വരുന്നതെന്തും ആയിരിക്കും നമുക്ക് അവ രണ്ടിനെയും വെവ്വേറെ കൈകാര്യം ചെയ്യാം കാരണം ഇതിൻറെ പോർട്ട് 2 ഇതിലൂടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുള്ളതിനാൽ ഇതിൽ നിന്ന് കുറച്ച് കറണ്ട് വരും പിന്നെ ഇത് ഇതിലൂടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇതിലെ കറണ്ട് 14 വോൾട്ട് 10 കിലോΩ ആയിരിക്കും 4 മില്ലി ആംപ്സ് ആണ് അതിനാൽ ഞാൻ ചെയ്യേണ്ടത് ഇതിൻറെ മൊത്തത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടെത്തുക എന്നതാണ് അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ ഞാൻ 2 പോർട്ട് അടയാളപ്പെടുത്തലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഞാൻ പൂജ്യത്തിന് തുല്യമായി സജ്ജമാക്കിയ V2 ആണ് അതിനാൽ ഇത് I2 ഇത് V1 പിന്നെ അത് I1 ആണ് സമവാക്യങ്ങൾ എഴുതി വേരിയബിളുകൾ ഇല്ലാതാക്കുക എന്നതുമാത്രമാണ് ഒന്നാമതായി എന്റെ പക്കൽ z ഘടകങ്ങളുടെ സമവാക്യങ്ങൾ ഉണ്ട് ചിലപ്പോൾ ഈ z നെ y ആയി പരിവർത്തനം ചെയ്യുന്നത് സൌകര്യപ്രദമായേക്കാം അങ്ങനെയെങ്കിൽ എനിക്ക് അത് നേരായ രീതിയിൽ ചെയ്യാം അതിനാൽ നമ്മൾ ആദ്യം 2 പോർട്ട് സമവാക്യങ്ങൾ എഴുതും V1 എന്നത് 8 കിലോΩ × I1 1 കിലോΩ × I2 ആണ് പിന്നെ V2 എന്നത് 20 കിലോΩ × I1 9 കിലോΩ × I2 ആണ് ഈ ഷോർട്ട് സർക്യൂട്ട് V2 പൂജ്യത്തിന് തുല്യമായതിനാൽ നമ്മുക്ക് ബാഹ്യ നിയന്ത്രണങ്ങളുണ്ട് അതിനാൽ ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ I1 എന്ന ഉറവിടം അര മില്ലി ആംപ്സ് ഇതിലൂടെയുള്ള വൈദ്യുതധാര അതായത് V1 12 കിലോΩ ആണ് അതായത് I1 എന്നത് അര മില്ലി ആംപ്സ് V1 12 കിലോΩ ആണ് V2 പൂജ്യം ആയതിനാൽ നമുക്ക് I1 എന്നത് 9 20 x I2 എന്ന് ലഭിക്കുന്നു ഇത് ആദ്യത്തെ സമവാക്യത്തിൽ കൊടുക്കുമ്പോൾ നമ്മുക്ക് ഇങ്ങനെ ലഭിക്കുന്നു V1 എന്നത് 8 കിലോΩ x 9 20 x I2 1 കിലോΩ x I2 അത് അടിസ്ഥാനപരമായി 92 കിലോΩ 20 x I2 ആയി മാറുന്നു അതിനാൽ I1 എന്നത് 9 20 × I2 ആണ് ഇത് അര മില്ലി അത് അത് V 1 12 കിലോΩ ആണ് V1 എന്നത് 92 കിലോΩ 20 x I2 ആണ് ഇത് ഞാൻ ആ വശത്തേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് ലഭിക്കും 920 x I2 0 5 മില്ലി ആംപ്സ് 92 കിലോΩ 20 x 12 കിലോΩ x I2 എനിക്ക് അവിടെ 108 ലഭിക്കും ഇടത് വശം 200 240 × I2 ആയിരിക്കും അത് അര മില്ലി ആമ്പിന് തുല്യമാണ് അതിനാൽ I2 എന്നത് 0 6 മില്ലി ആമ്പിയായിരിക്കും അതിനാൽ ഈ വഴി ഒഴുകുന്ന കറണ്ട് 0 6 മില്ലി ആംപ്സ് ആണ് അതിനാൽ ഇവിടെ ഒഴുകുന്ന മൊത്തം കറണ്ട് 1 6 ആണ് അതായത് 2 മില്ലി ആംപ്സ് അതിനാൽ നോർട്ടൺ കറണ്ട് 2 മില്ലി ആംപ്സ് ആണ് കൂടാതെ നോർട്ടൺ റെസിസ്റ്റൻസ് സ്വതന്ത്ര സ്രോതസ്സുകളെ നിർജ്ജീവമാക്കുന്നതിലൂടെ കണ്ടെത്തുന്നു അതിനാൽ ഈ കറണ്ട് സോഴ്സ് ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെയുള്ള റസിസ്റ്റൻസ് കണ്ടുപിടിക്കാം അവിടെ കണ്ടുപിടിക്കുന്ന ഏതൊരു റസിസ്റ്റൻസ് ആണെങ്കിലും അത് സമാന്തരം 10 കിലോΩ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കാരണം 1 നും 1′ നും ഇടയിൽ ഉടനീളം 10 കിലോഗ്രാം നേരിട്ട് ദൃശ്യമാകുന്നുണ്ട് ഇതാണ് മൊത്തം നോർട്ടൺ റെസിസ്റ്റൻസ് ഇതാണ് ഞങ്ങൾ വീണ്ടും എഴുതുന്ന 2 പോർട്ട് സമവാക്യങ്ങൾ അതിനാൽ ഇത് I2 ആണെന്നും ഇത് V2 ആണെന്നും പറയാം അപ്പോൾ അവിടെയുള്ള റെസിസ്റ്റൻസ് നോക്കുമ്പോൾ അത് V2 I 2 ആയിരിക്കും ഇത് V1 ആണെന്നും അത് I1 ആണെന്നും പറയാം നമുക്ക് വീണ്ടും അതേ 2 പോർട്ട് ബന്ധങ്ങൾ ഉണ്ട് V1 എന്നത് 8 കിലോΩ × I1 1 കിലോΩ × I2 ഉം V 2 എന്നത് 20 കിലോΩ ×I1 9 കിലോΩ ×I2 ഉം ആണ് നമുക്ക് ഈ നിയന്ത്രണങ്ങളുണ്ട് അതായത് V1 എന്നത് I1×12 കിലോΩ കാരണം 12 കിലോΩ റെസിസ്റ്റൻസ് മാത്രമേ പോർട്ട് 1 ലേക്ക് ബന്ധിപ്പിച്ചിട്ടുള്ളൂ അതിനാൽ ഇപ്പോൾ ഞാൻ ഇവിടെ പകരം വയ്ക്കുകയാണെങ്കിൽ എനിക്ക് ലഭിക്കും I1×12 കിലോΩ സമം 8 കിലോΩ × I1 1 കിലോΩ ×I2 ഞാൻ ഇത് ഈ വശത്തേക്കും അത് ആ വശത്തേക്കും എടുത്താൽ I2 എന്നത് 20 × I1 ആയിരിക്കും ഞാൻ അത് ഇവിടെ പകരം വയ്ക്കുന്നു അതിനാൽ എനിക്ക് V2 എന്നത് 20 കിലോΩ × I1 ആയി ലഭിക്കും അതായത് 20 കിലോΩ × I 2 20 9 കിലോΩ × I2 അത് 10 കിലോΩ × I2 ആയി മാറുന്നു അതിനാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് ഇതാണ് അതായത് V2 I2 അഥവാ 10 കിലോΩ × I2 I2 അല്ലെങ്കിൽ 10 കിലോΩ തന്നെ അതിനാൽ മൊത്തം റെസിസ്റ്റൻസ് എന്നത് ഈ ഭാഗം നൽകുന്ന 10 കിലോΩ ന് സമാന്തരമായി ഈ 10 കിലോ Ω അത് നമുക്ക് 5 കിലോΩ നൽകുന്നു അതിനാൽ നോർട്ടൺ റെസിസ്റ്റൻസ് 5 കിലോΩ ആണ് അവസാനമായി ഇവിടെ ചോദ്യം ഇതാണ് ഈ 2 പോർട്ട് നെറ്റ്വർക്ക് ഏതെങ്കിലും വിധത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നും ഒന്നിന് h ഘടകങ്ങളും മറ്റൊന്നിന് G ഘടകങ്ങളും നൽകിയിരിക്കുന്നു എന്നും നിങ്ങൾ സംയുക്ത ശൃംഖലയുടെ y ഘടകങ്ങൾ കണ്ടെത്തണം ഇപ്പോൾ ഞാൻ ഇതിനെ I1A I1B എന്ന് വിളിക്കുകയും ഇതിനെ V1 I1 എന്ന് വിളിക്കുകയും ചെയ്യട്ടെ ആദ്യത്തെ 2 പോർട്ടുകളിലെ പോർട്ട് 1 ലേക്ക് V1 കൊടുക്കുകയും രണ്ടാമത്തെ 2 പോർട്ടിലും V1 കൊടുക്കുകയും ചെയ്തു അതുപോലെ ആദ്യത്തെ രണ്ട് പോർട്ടുകളിലെ പോർട്ട് 2 ലേക്ക് പ്രയോഗിച്ച വോൾട്ടേജ് V2 ആണ് ഇത് V2 ആണെങ്കിൽ ഈ വോൾട്ടേജും V2 ആണ് അതേ വോൾട്ടേജ് രണ്ട് 2 പോർട്ടുകളിലും പ്രയോഗിക്കുന്നു I 1 എന്ന കറണ്ട് I1A I1B ആയിരിക്കും സമാനമായി ഇത് I2 ആണെങ്കിൽ ഇത് I2A ആണ് ഇത് I2B ആണ് I2 എന്നത് I2A I2B ആയിരിക്കും അതിനാൽ നമുക്ക് ഒരേ വോൾട്ടേജ് കളും കറണ്ടുകളും കൂട്ടിചേർക്കപ്പെടുന്നു അതിനാൽ 2 പോർട്ടുകൾ സമാന്തരമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് നിങ്ങൾ y ഘടകങ്ങളുടെ ഘടനയിൽ രണ്ടും പ്രതിനിധീകരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരുന്നില്ല എന്നാൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും രണ്ട് നെറ്റ്വർക്കുകളുടെ y ഘടകങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ ആകത്തുകയായ y ഘടകങ്ങൾ നൽകുകയും ചെയ്യും അതിനാൽ ഈ h ഘടകങ്ങളെ y ഘടകങ്ങളിലേക്കും ഈ g ഘടകങ്ങളെ y ഘടകങ്ങളിലേക്കും പരിവർത്തനം ചെയ്ത് മുന്നോട്ട് പോകുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഒരു ഘടകത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള മാർഗം ആദ്യം പറയാം ഞാൻ h ഘടകത്തിൻറെ ഉദാഹരണം എടുക്കും നമുക്ക് V1 എന്നത് 1 കിലോΩ × I1 0 8×V 2 ആണ് ഉള്ളത് 4 മില്ലിസീമൻസ് × V2 ആണ് അതിനാൽ നിങ്ങൾ ഈ സമവാക്യങ്ങൾ പുനഃക്രമീകരിക്കണം അതായത് നമുക്ക് ഇടതുവശത്ത് I1 ഉം I2 ഉം ഉണ്ടായിരിക്കും ഇപ്പോൾ വലതുവശത്ത് നമുക്ക് V1 മാത്രമാണുള്ളത് രണ്ട് സമവാക്യങ്ങൾക്കും ഒരുപോലെ തന്നെ അതിനാൽ ഇത് നേരിട്ട് കണക്കുകൂട്ടുന്ന ഈ ഘട്ടങ്ങൾ ഞാൻ കാണിച്ചു തരുന്നില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതിനുള്ള ഉത്തരങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതിനാൽ ആദ്യത്തെ നെറ്റ്വർക്കിന്റെ y ഘടകങ്ങൾ ഇതായിരിക്കും രണ്ടാമത്തേതിന്റെ y ഘടകങ്ങൾ അത്തരത്തിലൊന്നായി മാറുന്നു മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ y ഘടകങ്ങൾ ലഭിക്കുന്നതിന് നമ്മൾ രണ്ടിന്റെയും ആകെത്തുക കണ്ടുപിടിക്കണം 15 മില്ലിസീമെൻസ് പിന്നെ 0 55 മില്ലിസീമെൻസ് പിന്നെ 0 3 അതായത് 0 2 മില്ലിസീമെൻസ് പിന്നെ 40 5 അതായത് 4 5 മില്ലിസീമെൻസ് എന്നിവ ലഭിക്കുന്നു ഈ പ്രത്യേക ചോദ്യത്തിനുള്ള പരിഹാരമാണിത്